നമസ്തേനമ്മൾഇതിനകംബാലൻസ്ഷീറ്റ്ഫോമറ്ചർച്ചചെയ്തു അതിനാൽ financial statement ൽ balancesheet ന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്നും അത് ഒരു പ്രത്യേക തീയതിയിലെ ഫൈനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നു എന്നും നിങ്ങൾക്കറിയാം ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ ചോദ്യം ചെയ്യാം അവിടെ തന്നിരിക്കുന്ന ബാലൻസ് കളിൽ നിന്ന് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ നമ്മൾക്ക് ശ്രമിക്കാം പിന്നീട് നമ്മൾ ഒരു കമ്പനി ഫോർമാറ്റിൽ ഒരു കമ്പനിക്കായി ഇത് ചെയ്യാം പക്ഷേ നമ്മൾ ഇതിൽ ഫോർ മാറ്റിന് ഇപ്പോൾ വളരെ പ്രാധാന്യം ചെലുത്തുന്നില്ല ഇപ്പോൾ ബാലൻസ്ഷീറ്റ് അടിസ്ഥാനഘടന തയ്യാറാക്കാൻ നമ്മൾക്കു ശ്രമിക്കാം അതിനാൽ നിങ്ങൾക്ക് ഇതിൻറെ ഒരു പ്രിൻറ് ഔട്ട് ഉണ്ട് അത് പരിശോധിച്ച് എന്നോടൊപ്പം ഈ ചോദ്യം പരിഹരിക്കാൻ ശ്രമിക്കുക ഇതിൽ നിന്ന് നിങ്ങൾ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനാൽ ഇത് നമ്മൾ എങ്ങിനെ ചെയ്യും ബാലൻസ് ഷീറ്റിന് രണ്ട് വശങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം ഒന്ന് Liabilites പ്രതിനിധീകരിക്കുന്നു മറ്റൊന്ന് Assets പ്രതിനിധീകരിക്കുന്നു liabilites പണം സമ്പാദിച്ച വഴികളാണ് Assets ബിസിനസിന് ആവശ്യമായ resources ആണ് ഓരോ ഇനത്തിനും അത് ഒരു Assets എന്നോ Liabilites എന്നോ അടയാളപ്പെടുത്തുന്നത് തുടരുക ഉദാഹരണത്തിന് Capital നിങ്ങളുടെ Capital എവിടെ രേഖപ്പെടുത്തും നിങ്ങൾ എവിടെ ഇത് കാണിക്കും ഇതൊരു Liability ആണ് അതിനാൽ L എന്ന് അടയാളപ്പെടുത്തുക ഇതുപോലെ ഓരോ ഇനത്തെയും അടയാളപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ Creditors ഏതുതരം ഇനമാണ് Creditors നമ്മൾ പണം കൊടുക്കേണ്ടവർ ആയിട്ടുള്ള കടക്കാരെ പ്രതിനിധീകരിക്കുന്നു നമ്മൾ അവർക്ക് ഉടനടി പണം നൽകേണ്ട തായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനെ L മാർക്ക് ചെയ്യുന്നു Bank Overdraft എന്നത് ബാങ്ക് നമ്മളെ ബാലൻസ് ഉള്ളതിനേക്കാൾ അധികം പണം പിൻവലിക്കാൻ അനുവദിച്ചു ഇത് ഒരു ബാധ്യത കൂടിയാണ് ആണ് അതിനാൽ L Cash in hand A ആയും Furniture A Debtors ഇത് ഉപഭോക്താക്കളിൽ നിന്നും ലഭിക്കേണ്ട തുക ആണ് അതിനാൽ A എന്നു കാണിച്ചു Plant and Machinery അഥവാ Plant A ആണ് Drawings പണം നിക്ഷേപിക്കുന്നത് ഉടമകളാണ് അതിനെ മൂലധനം എന്നാണു പറയുന്നത് അതിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് യാണ് ആണ് Drawings എന്നു പറയുന്നത് ഇത് ഒരു Asset അല്ല ഇതിനെ Minus L എന്നായി കാണിക്കാം കാരണം ഇത് Liabilities നിന്ന് കുറച്ചു കാണിക്കേണ്ടതാണ് അതുപോലെ Creditors L Closing stock A Bills payable L Bills Receivable ഇതൊരു Asset ആണ് A Net Profit ഇതൊരു Asset ആണോ അതോ Liability ആണോ ഇത് Balance sheet കാണിക്കാൻ പാടുമോ Net profit or Reserves എന്നത് സ്ഥാപനത്തിൻറെ accumulated profit ആണ് അതിനാൽ ഇതൊരു Liability ആണ് ഇത് ഉടമസ്ഥർക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ ഇതിനെ Liability ആയി കാണിക്കുകയാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ എല്ലാ ഇനങ്ങളെയും അടയാളപ്പെടുത്തി ഇനി നിങ്ങൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നേരിട്ട് കാണിച്ചുതരുന്നു നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും അത് വീണ്ടും പരിശോധിക്കുന്നു എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ എല്ലാ Assets ഉംപട്ടിക പെടുത്തിയിട്ടുണ്ട് Plant Furniture എന്നിവ Fixed Assets ആണ് Debtors closing stock bills receivable cash in hand എന്നിവ Current assets ആണ് സ്ഥിരം ആയവ ആദ്യവും അസ്ഥിരമായവ പിന്നീടും എന്ന ക്രമത്തിലാണ് ഇതിനെതിരെ കാണിച്ചിട്ടുള്ളത് Capital നിന്ന് Drawings കുറച്ച് തുകയാണ് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് Minus L എന്ന് കാണിച്ചത് അടുത്തതായി നമുക്ക് രണ്ട് Creditors തന്നിട്ടുണ്ട് ഒന്ന് Creditors 100000 മറ്റൊന്ന് Creditors 25000 ഒരുപക്ഷേ ഇതിൽ ഒന്ന് long term creditors ആകും മറ്റൊന്ന് short term creditors ആകും അവസാനമായി Bank overdraft Bills payable എന്നിവ കാണിച്ചു ബാക്കിയുള്ളതെല്ലാം എല്ലാം Current Assets ആണ് അവർ നൽകിയ വിവരങ്ങൾ പ്രകാരം ഈ തീയതിയിലെ Balance sheet ഇതാണ് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇത് കൂടുതൽ രസകരമാണ് കാരണം വിവരങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നത് അനുസരിച്ച് ഇവിടെ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ ശ്രമിക്കുന്നു ഇവിടെ നമ്മൾ കുറച്ച് അസംസ്കൃത ഇടപാടുകൾ നൽകിയിട്ടുണ്ട് അസംസ്കൃത ഇടപാടിൽ നിന്ന് നേരിട്ട് ഓരോ തീയതിയും നോക്കി balance sheet തയ്യാറാക്കണം Jala Ram 1st January 2012എന്ന തീയതിയിൽ ഒരു സ്റ്റോർ ആരംഭിക്കുന്നു അതിലേക്കായി 200000രൂപ സമ്പാദ്യത്തിൽ നിന്നും നിക്ഷേപിക്കുന്നു സ്ഥാപനത്തിന് Messrs Hanuman Stores എന്ന പേര് നൽകി 2nd January ൽ 500000രൂപയ്ക്ക് ഒരു കട മുറി വാങ്ങുന്നു 100000 രൂപ പണമായി നൽകി 400000 ന് ഒരു Mortgage ഒപ്പിടുന്നു അതിനാൽ ഒരു ഷോപ്പ് വാങ്ങുന്നു 100000പണമടച്ച് ബാക്കി ഒരു mortgage ഒപ്പിട്ടു അതായത് 400000 ന് വായ്പ എടുക്കുന്നു ഇപ്പോൾ സ്റ്റോറിൽ 50000 രൂപ പണമായും 150000 അതായത് അഞ്ചിലൊന്ന് ക്രെഡിറ്റ് ആയും വാങ്ങുന്നു ഈ 150000പിന്നീട് തിരിച്ചു എന്നാൽ ഈ തീയതിയിൽ തന്നെ ഇടപാട് റെക്കോർഡ് ചെയ്തിരിക്കും ഇപ്പോൾ അദ്ദേഹം 150000രൂപയ്ക്ക് പകുതി ചരക്കുകൾ വിൽക്കുന്നു ബാക്കി സാധനങ്ങൾ 75000 ന് 15 ദിവസത്തെ ക്രെഡിറ്റിൽ Mr Bharat ന് വിറ്റു On 7 January 150000 inventories Mr Laxman നിന്നും വാങ്ങി അതും ക്രെഡിറ്റിൽ 30 ദിവസത്തേക്ക് 10 January 100000 inventory 120000 ന് by cash ൽ വിറ്റു ഇവിടെ ബാലൻ ഷീറ്റ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ ബന്ധപ്പെട്ട തീയതികളിലെ ബാലൻസ്ഷീറ്റ് ഉണ്ടാക്കണം ഈ ചോദ്യത്തിന് പ്രിൻറ് ഔട്ട് എടുത്തു നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്താൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അതിനുശേഷം നിങ്ങൾ ചെയ്ത ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാം അതിനാൽ ജനുവരി 1234 6710 തീയതികളിലെ ബാലൻസ് ഷീറ്റുകൾ നിർമിക്കണം നിങ്ങൾ തയ്യാറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമയം പാഴാക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനുത്തരം നിങ്ങൾക്ക് കാണിച്ചുതരുന്നു നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കുക ആദ്യത്തെ ഇടപാട് വ്യക്തിഗത സമ്പാദ്യത്തിൽനിന്ന് 200000 രൂപ Jala Ram മൂലധനത്തിനായി നിക്ഷേപിച്ചു അതിനാൽ ജനുവരി 1 ബാലൻ ഷീറ്റിൽ 200000രൂപ capital ആയി കാണിക്കുന്നു Mr Jala Ram 200000 രൂപ cash ആയി ആണ് കൊണ്ടുവന്നത് അതിനാൽ 200000 രൂപ Cash എന്നുപറഞ്ഞ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു അപ്പോൾ Total liability Total Asset എന്നിവ തുല്യമാകുന്നു

ഇതുപോലെ എല്ലാ ദിവസങ്ങളിലെയും തുല്യം ആകണം അടുത്ത ഇടപാട് അടുത്ത ഇടപാട് 500000 രൂപയ്ക്ക് ഷോപ്പ് വാങ്ങുന്നതാണ് അതിൽ 100000 രൂപ ഡൌൺ പെയ്മെൻറ് നടത്തുന്നു ബാക്കി 400000 രൂപ ലോണിന്റെ രൂപത്തിലാണ് അടുത്തതായി ജനുവരി 2 ന് ബാലൻസ് ഷീറ്റിൽ 500000 രൂപ shop എന്നുപറഞ്ഞ് കാണിക്കുന്നു അടയ്ക്കേണ്ട Mortgage loan 400000 ആയി കാണിക്കുന്നു 200000രൂപ രൂപ ക്യാഷ് ബാലൻസ് 100000 കുറച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്100000 ആയി നിലനിൽക്കുന്നു 200000 capital മാറ്റമില്ലാതെ തുടരുന്നു അതിനാൽ ജനുവരി 2 ലെ ബാലൻസ് ഷീറ്റിൽ ആകെ 600000 Assets and Liabilities ഉണ്ട് ജനുവരി 1 ലെ capital ആയ 200000 രൂപ ജനുവരി 2 ലും മാറ്റമില്ലാതെ തുടരുന്നു ഇതിന് കാരണം ബാലൻസ്ഷീറ്റ് എന്നു പറയുന്നത് ഒരു cumulative statement ആണ് ഇത് ബാലൻസ് ഷീറ്റിലെ പുതിയ ഒരു ഇടപാട് മാത്രമാണ് അതിനാൽ ജനുവരി 1ലെ capital ആയ 200000 രൂപ ജനുവരി 2 ൽ തുടർന്ന് കാണിക്കുന്നു വാസ്തവത്തിൽ അത് തിരിച്ചടയ്ക്കാത്ത കാലത്തോളം ബാലൻസ് ഷീറ്റിൽ തുടർന്നുകൊണ്ടേയിരിക്കും ഈ ബാലൻസ് ഷീറ്റിൽ ആയാലും തുടർന്നുള്ള ബാലൻസ് ഷീറ്റിൽ ആയാലും ഈ കാര്യങ്ങളെല്ലാം വളരെ ലളിതമാണ് പക്ഷേ ഇത് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ആയതിനാലാണ് പതിയെ പോകുന്നത് അതിനാൽ നിങ്ങൾക്കിത് വ്യക്തമാകുന്നതാണ് ഇനി നമ്മൾക്ക് മൂന്നാമത്തെ ഇടപാടിലേക്ക് പോകാം മൂന്നാമത്തെ ഇടപാട് ചരക്കുകൾ വാങ്ങുന്നു അതായത് 50000 രൂപയായും ബാക്കി 150000 ക്രെഡിറ്റ് ആയും ജനുവരി 3 ന് ബാലൻസ് ഷീറ്റ് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ക്യാഷ് ബാലൻസ് 50000 ആയി കുറഞ്ഞു നേരത്തെ 100000 ആയിരുന്നത് Goods വാങ്ങുന്നതിനായി 50000 ചെലവാക്കി Cash 50000 ആയി കുറഞ്ഞു Shop ൻറെ 500000 മാറ്റമില്ലാതെ തുടരുന്നു Inventory 200000രൂപ അതിലെ 150000രൂപ credit ന് വാങ്ങുന്നു ബാക്കി 50000 cash ഉപയോഗിക്കുന്നു മൊത്തം goods 200000 Capital 200000 തന്നെയാണ് Mortgage ആയ 400000 രൂപ മാറ്റമില്ലാതെ തന്നെ തുടരുന്നു Payables അതായത് Trade Payables ചിലപ്പോൾ ഇത് Creditors ആവാം 150000 രൂപയും ആണ് ആകെ തുക 750000 ക ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്നത് പുതിയ പുതിയ ഇനങ്ങൾ ചേർക്കപ്പെടുകയും ചെയ്യുന്നു അടുത്തതായി ജനുവരി 4 ന് പകുതി Merchandise 150000 രൂപയ്ക്ക് വിറ്റു ജനുവരി 4 ന് ക്യാഷ് ബാലൻസ് 50000നിന്ന് 200000 ആയി ഉയർന്നു Shop 500000 മാറ്റമില്ലാതെ തുടരുന്നു Merchandise മുന്നേ 200000 ആയിരുന്നത് ഇപ്പോൾ അത് 100000 ആയി കുറഞ്ഞു Capital 200000 മാറ്റമില്ലാതെ തന്നെ തുടരുന്നു Mortgages 400000 മാറ്റമില്ല അതുപോലെ Payables മാറ്റമില്ല ഇവിടെ ഒരു കൂട്ടിച്ചേർക്കൽ ഉണ്ട് അതായത് 100000 ൻറെ Inventory 150000 ന് വിറ്റു ആയതിനാൽ നമ്മുടെ കൈയിലുള്ള ക്യാഷ് 200000 ആയി മാറുന്നു അതായത് 50000 മുമ്പത്തെയും പുതിയതായി 150000 കൂട്ടിച്ചേർത്തു അതായത് Inventory 100000 ഉള്ളത് 150000 ന് വിറ്റു 50000 Profit ആയി ലഭിച്ചു 50000 ബാലൻസ് ഷീറ്റിൽ Profit and loss ac എന്ന് പറഞ്ഞ് കാണിക്കുന്നു ഇനി നമുക്ക് ജനുവരി 6 ന് നടന്ന ഇടപാടിലേക്ക് പോകാം അതായത് Inventory ടെ പകുതി 75000 രൂപയ്ക്ക് വിറ്റു ഇപ്പോൾ Cash 200000 Shop 500000 മാറ്റമില്ലാതെ തുടരുന്നു Merchandise Inventory 100000 ഉണ്ടായിരുന്നതിൽ പകുതി വിറ്റു അപ്പോൾ ബാക്കി ആയിട്ടുള്ളത് 50000 പുതിയ ഒരു ഇനം Asset ൽ വന്നു ie Receivables ഇപ്പോൾ നോക്കിയാൽ Inventory 50000 ആയി കുറഞ്ഞിരിക്കുന്നു Receivables ൽ 75000 രൂപ വന്നിരിക്കുന്നു ഇതുവരെ ആ പണം ലഭിച്ചിട്ടില്ല പക്ഷേ ഭാവിയിൽ നമ്മൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും എന്നാലും ആ 75000 ബാലൻസ് ഷീറ്റിൽ കാണിക്കും അപ്പോ 25000 രൂപയുടെ വ്യത്യാസമുണ്ട് അത് Profit ആണ് Profit loss ac ഇപ്പോൾ 50000 ഉള്ളത് 75000 ആയി ഉയരുന്നു അതുപോലെ Capital 200000 Mortgage 400000 Payables 150000 എന്നിവയ്ക്ക് മാറ്റമില്ല ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ആകെ 825000 ആയി അടുത്തതായി ജനുവരി 7 Laxman നിന്ന് 150000 രൂപയുടെ Inventory 30 ദിവസത്തെ ക്രെഡിറ്റിൽ വാങ്ങി ഇത് ജനുവരി 7 ലെ കണക്കാണ് അന്നേദിവസം പുതിയ Inventories വാങ്ങി Inventories 200000 ആയി ഉയർന്നു ഇത് ക്രെഡിറ്റിലെ ഇടപാടാണ് Payables 300000 ആയി ഉയർന്നു മുന്നേ ഇത് 150000 ആയിരുന്നു മറ്റൊന്നിനും തന്നെ ഒരു മാറ്റവുമില്ല ഇപ്പോൾ ആകെ തുക 975000 ആയിരിക്കുന്നു ഇനി അവസാന ഇടപാട് ആയ ജനുവരി 10 ലെ Inventory 100000 ഉള്ളത് 120000 രൂപയ്ക്ക് വിറ്റു ജനുവരി 10 ഇപ്പോൾ ക്യാഷ് ബാലൻസ് 120000 വർദ്ധിക്കുന്നു നേരത്തെ ഇത് 200000 ആയിരുന്നു ഇപ്പോൾ 320000 ആയിത്തീർന്നു Inventory 200000 ഉണ്ടായിരുന്നത് 100000 ആയി കുറഞ്ഞു Shop Receivables മാറ്റമില്ല കാരണം ഇതൊരു പണമിടപാട് ആയിരുന്നു 75000 ആയിരുന്ന Profit 20000 കൂടി അധികം ചേരുന്നു Capital Trade Payables Mortgage എന്നിവയ്ക്ക് മാറ്റമില്ല ആകെത്തുക 1075000 ഇത് വളരെ ലളിതമായ ഒരു ചോദ്യം ആയിരുന്നു ഇന്നു നമ്മൾ നിരവധി ഇടപാടുകൾ കണ്ടു അതിനായി ബാലൻസ് ഷീറ്റുകൾ ഉണ്ടാക്കി യഥാർത്ഥ ജീവിതത്തിൽ എല്ലാദിവസവും ബാലൻസ് ഷീറ്റ് നിർമിക്കേണ്ട ആവശ്യമില്ല കാലയളവിന്റെ അവസാനത്തിൽ അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരുമാസത്തിന് അവസാനമോ ആവും നിർമ്മിക്കുക എങ്കിലും ഇത്തരത്തിലാണ് ബാലൻസ് ഷീറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ഇപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾക്ക് നിരവധി ബാലൻ സുകൾ നൽകിയിട്ടുണ്ട് ഈ ബാലൻസ്കളിൽ നിന്ന് നിങ്ങൾ ഒരു vertical ബാലൻസ് ഷീറ്റ് നിർമ്മിക്കേണ്ടതുണ്ട് ഇതുകഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ എന്നപോലെ വളരെ വിശദമായ ഒരു ബാലൻസ് ഷീറ്റ് നിർമിക്കുന്നതാണ് അതിനാൽ ഈ തന്നിരിക്കുന്നവയിൽ ഓരോ ഇന്നത്തെയും നോക്കുക ആദ്യ ചോദ്യത്തിൽ എന്നപോലെ Assets Liabilities ഏതൊക്കെയാണെന്ന് എന്ന് അടയാളപ്പെടുത്തുക അതിനുശേഷം ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം Bad debt recovered നെ പറ്റി ഒരു നോട്ട് തന്നിട്ടുണ്ട് അത് ക്യാഷ് ബാലൻസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അത് എവിടെ എഴുതണമെന്ന് അവർക്കറിയില്ല അതിനാൽ നിങ്ങൾ Sales നിന്ന് ആരംഭിക്കുകയാണ് എങ്കിൽ അത് ബാലൻസ് ഷീറ്റിൽ എവിടെ രേഖപ്പെടുത്തും യഥാർത്ഥത്തിൽ Sales ഒരു Profit loss ACഐറ്റം ആണ് അതിനാൽ ഒരു ഇത് ബാലൻസ് ഷീറ്റിൽ എവിടേയും രേഖപ്പെടുത്തേണ്ടത് ഇല്ല ഇതിനെ നമ്മൾക്ക് PL എന്ന രേഖപ്പെടുത്താം Profit lossAC തയ്യാറാക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ചെയ്യാം എന്നാൽ ഇപ്പോൾ നമ്മൾ അത് അധികജോലി ആയതുകൊണ്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ ബാലൻ ഷീറ്റ് മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നുള്ളൂ Return outward ഇതുമൊരു Profit loss item ആണ് Capital ഇതൊരു Balance sheet item ആയതിനാൽ Liability ൽ കാണിക്കുന്നു Discount Cr ഇതൊരു PL item ആണ് Creditors ഇതൊരു Liability item ആണ് Cash at bank ഇതൊരു Bank Overdraft ആണ് സാധാരണ Cash at bank ഡെബിറ്റ് ബാലൻസ് ആണ് അതുകൊണ്ട് Asset side ൽ കാണിക്കും പക്ഷേ ഇവിടെ Credit അതിൻറെ അർത്ഥം നമ്മൾ ബാങ്കിൽ നിന്നും അധികമായി പണം പിൻവലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നും അറിയപ്പെടുന്നു ഇത് ബാങ്ക് നൽകുന്ന ഒരുതരം ലോൺ ആണ് debts ഇത് ഒരുകണക്കിന് ലോൺ ആണ് അതിനാൽ L എന്ന് അടയാളപ്പെടുത്താം Bad debts recovered ഇതൊരു unique item ആണ് ആദ്യമായി Bad debt recovered എന്താണെന്ന് മനസ്സിലാക്കാം നമ്മൾ വസ്തുക്കൾ വിൽക്കുമ്പോൾ അത് ചിലപ്പോൾ Receivables അല്ലെങ്കിൽ Debtors ആയി നിലനിൽക്കും നിങ്ങൾക്ക് ഇതിൽ Debtors balance കാണാൻ കഴിയുന്നുണ്ടല്ലോ ഈ Debtors ൽ നിന്ന് നമുക്ക് പണം ലഭിക്കേണ്ടതാണ് ഇവർ ചിലപ്പോൾ കടം വീട്ടാതെ ഇരുന്നാൽ അല്ലെങ്കിൽ പാപ്പരാവുക യോ ചെയ്താൽ ഉദാഹരണമായി Vijay Mallya ബാങ്കുകൾ Mallya ക്ക് നൽകിയ ലോൺ എല്ലാം ഇപ്പോൾ Bad debts ആണ് ഇപ്പോൾ തീർച്ചയായും ഗവൺമെൻറ് വളരെ ബുദ്ധിപൂർവ്വം അത് പിടികൂടുകയും Mallya നിന്ന് പണം വീണ്ടെടുക്കുകയും ചെയ്യുന്നു അല്ലാത്തപക്ഷം Mallya ക്ക് നൽകിയ പണം ഒരു Bad debt പോലെയാണ് അപ്പോൾ ഈ പാർട്ടി Messrs Seetha എൻറർപ്രൈസസ് നിൻറെ കാര്യത്തിൽ അവർ കുറച്ച് വായ്പ നൽകിയിരുന്നു എന്നു മാത്രമല്ല വായ്പ തുക തിരിച്ച് കിട്ടുന്നുമില്ല അതിനാലാണ് അവർ നേരത്തെ ഇതൊരു Bad debt ആയി കണക്കാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ Bad debt recover ചെയ്യാൻ സാധിച്ചു പക്ഷേ അത് എവിടെ രേഖപ്പെടുത്തണമെന്ന് അവർക്കറിയില്ല അതിനാൽ അവർ അത് ക്യാഷ് ബാലൻസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ നമ്മൾ ഇതിനെ ക്യാഷ് ബാലൻസിൽ ഉൾപ്പെടുത്താൻ പോകുന്നു എന്നാൽ ഈ പണം cash ൽ കൂട്ടി കാണിക്കാത്തതിനാൽ നമ്മൾ അതിനെ കൂട്ടി കാണിക്കുന്നു A അതായത് Asset ൽ ഉൾപ്പെടുത്തുന്നു Outstanding expenses അതായത് നമുക്ക് ചില ചെലവുകൾ വന്നു ഉദാഹരണമായി Electricity bill പക്ഷേ നമ്മൾ ഇതുവരെയായി അതിൻറെ പണം നൽകിയിട്ടില്ല അതിനാൽ ഇതൊരു Liability ആണ് Net loss കമ്പനികൾ അല്ലെങ്കിൽ എന്റർപ്രൈസ് നഷ്ടം നേരിടുന്നു അതിനാൽ ഈ നഷ്ടം നമ്മൾ എവിടെയാണ് എഴുതേണ്ടത് ഇത് ബാലൻസ് ഷീറ്റിൽ കാണിക്കാമോ തീർച്ചയായും കാരണം Profit നമ്മൾ Liability കൂട്ടി കാണിക്കുന്നു ഇത് Loss ആയതിനാൽ Liability നിന്ന് കുറച്ചു കാണിക്കുന്നു അതിനാൽ നമ്മൾ ഇത് മൈനസ് എന്ന് അടയാളപ്പെടുത്തുന്നു Salary ഇതൊരു PL item ആണ് Samples ഇവ Free Samples ഇതൊരു വിപണന ചെലവാണ് അതിനാൽ നമ്മൾ അതിനെ PL രേഖപ്പെടുത്തുന്നു Land building ഇതൊരു Asset item ആണ് മിക്ക ഇനങ്ങളും നിങ്ങൾക്ക് വ്യക്തമാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു ഓരോ ഇനത്തെയും അടയാളപ്പെടുത്തുന്നതായി ഞാൻ പോകുന്നില്ല നിങ്ങൾക്ക് ഇത് സ്വയം അടയാളപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇവിടെ താൽക്കാലികമായി നിർത്താം നിങ്ങൾ ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഉത്തരവുമായി പരിശോധിക്കാവുന്നതാണ് ഇനി നമുക്ക് ഉത്തരം നോക്കാം ഇത് Messrs Seetha Enterprise ബാലൻസ് ഷീറ്റ് ആണ് എല്ലായ്പ്പോഴും ഹെഡിങ് എഴുതുന്ന ശീലം ഉണ്ടാക്കാം ഒന്നുകിൽ ഒരു വശത്ത് Liabilities എന്നും മറുവശത്ത് Asset എന്നും എഴുതുക അല്ലെങ്കിൽ ഇതുപോലെ Vertical രീതിയിൽ ബാലൻ ഷീറ്റ് ഉണ്ടാക്കുക ആദ്യമായി Liabilities നിന്നും ആരംഭിക്കാം മുമ്പത്തെ ഷീറ്റിൽ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക ആദ്യമായി Capital അതിനെ L എന്ന് രേഖപ്പെടുത്തിയിരുന്നു അതിനാൽ നമുക്ക് Capital നിന്നും ആരംഭിക്കാം loss വന്നത് Capital നിന്നും കുറച്ച് കാണിക്കുക അടുത്തതായി Borrowed fund എന്ന ഹെഡിങ് കൊടുക്കുക അതിൽ Loan കാണിക്കുക അപ്പോൾ നമുക്ക് Total capital employed ലഭിക്കും അടുത്തതായി Assets ലെ Fixed Assets ആയ Building Furniture Goodwill എന്നിവ Fixed Asset എന്ന തലക്കെട്ടിന് കീഴിൽ കാണിക്കുന്നു തയ്യാറാക്കിയ ഉത്തരം പരിശോധിക്കുക അടുത്തതായി Current Assets അതിൽ Cash ഓർക്കുക Bad debt recovered ൻറെ തുക Cash ബാലൻസിൽ കൂട്ടി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് 6750 ആയി കാണിക്കൂ പിന്നീട് Debtors Closing stock എന്നിവ കാണിക്കുക അപ്പോൾ നമുക്ക് Total of current assets ലഭിക്കും അതിൽനിന്ന് Current liabilities ആയ creditors outstanding expense bank overdraft കുറച്ച് കാണിക്കും അപ്പോൾ Net current asset ആയി 13050 ലഭിക്കും നിങ്ങൾക്ക് ഈ Liabilities Liability side ൽ കാണിക്കാവുന്ന താണ് പക്ഷേ നമ്മൾ Vertical ഫോർമാറ്റിലാണ് നിർമ്മിക്കുന്നത് എന്നതിനാൽ നമ്മൾ ഇത് Assets കീഴിൽ എഴുതി നിലവിലെ Assets നിന്നും കുറച്ചു കാണിക്കുന്നു അതിനാൽ Total assets 193050 Total Liabilities ആയി പൊരുത്തപ്പെടുന്നു ഇതൊരു ലളിതമായ ബാലൻസ് ഷീറ്റ് ആയിരുന്നു പിന്നീട് ഒരിക്കൽ നമ്മൾ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാൻ പഠിക്കുന്നതാണ് എന്നാൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ലളിതമായ ബാലൻസ് ഷീറ്റ് നിർമ്മിച്ചത് അതിനാൽ നമ്മൾ ഇവിടെ നിർത്തുന്നു നമസ്തേ